ഇൻഡസ്ട്രി 4 വ്യവസായങ്ങളിൽ സ്മാർട്ട് ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു നിലവിലുള്ള ഫാക്ടറി ഫാക്ടറി പ്രവർത്തനങ്ങൾ പ്രക്രിയകൾ ഉൽപന്നങ്ങൾ എല്ലാം സ്മാർട്ടാക്കുന്നു എന്നാൽ സ്മാർട്ട് ഫാക്ടറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്മാർട്ട് ഫാക്ടറിയുടെ വ്യത്യസ്ത നിർവചനങ്ങൾ ലഭ്യമാണ് സ്മാർട്ട് ഫാക്ടറിയുടെ അത്തരമൊരു നിർവചനം നമുക്ക് നോക്കാം ഈ നിർവചനം അനുസരിച്ച് സ്മാർട്ട് ഫാക്ടറി ചെയ്യാനും പുതിയ സാഹചര്യങ്ങളിൽ നിന്ന് തത്സമയം അല്ലെങ്കിൽ തത്സമയം സ്വയം പഠിക്കാനും ഉൽപാദന പ്രക്രിയകൾ സ്വയം നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു വഴക്കമുള്ള സംവിധാനമാണിത് സ്മാർട്ട് ഫാക്ടറിയുടെ ഈ നല്ല നിർവചനത്തിലൂടെ വ്യത്യസ്ത വശങ്ങൾ ഇവിടെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്താണ് ഈ വ്യത്യസ്ത വശങ്ങൾ ഇത് ഒരു വഴക്കമുള്ള സംവിധാനമാണ് നമുക്ക് എളുപ്പം മാറ്റാവുന്ന ഒരു സംവിധാനം വേണം നിലവിലുള്ള ഒരു പ്രക്രിയയിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ ആ പ്രത്യേക മാറ്റം ഉൾപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതിനായി സംയോജിപ്പിക്കുന്നതിന് സിസ്റ്റം വേണ്ടത്ര വഴക്കമുള്ളതായിരിക്കണം സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ കാലാകാലങ്ങളിൽ പ്രകടനം സ്വയം ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ഈ സ്മാർട്ട് ഫാക്ടറി അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫാക്ടറിയിലെ ചില ഘടകങ്ങൾക്ക് കാലക്രമേണ അതിന്റെ പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുപോലെ മുൻ പ്രഭാഷണങ്ങളിൽ കടന്നുപോയവയെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കുക ഈ ആശയം വ്യത്യസ്ത അൽഗോരിതങ്ങൾ സംയോജിപ്പിച്ച് നടപ്പിലാക്കാൻ കഴിയും ഭാവിയിൽ ഒരു പ്രത്യേക യന്ത്രത്തിന്റെയോ ഒരു പ്രക്രിയയുടെയോ പ്രകടനം എത്രമാത്രം ആയിരിക്കുമെന്ന് കണക്കാക്കാൻ കഴിയുന്ന അൽഗോരിതങ്ങൾ തുടർന്ന് അതിന്റെ പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യുന്നു ഇത് വിശാലമായ നെറ്റ്വർക്കിലുടനീളം പ്രകടനം സ്വയം ഒപ്റ്റിമൈസ് ചെയ്യാൻ പോകുന്നു ഒരു നെറ്റ്വർക്ക് അവിടെ ഉണ്ടായിരിക്കണം ഇത് പ്രക്രിയയിൽ സഹായിക്കുകയും തത്സമയം അല്ലെങ്കിൽ തത്സമയം അല്ലാത്ത വ്യത്യസ്ത സാഹചര്യങ്ങളുമായി സ്വയം പൊരുത്തപ്പെടുകയും വിവിധ വ്യാവസായിക പ്രക്രിയകൾ ഉൽപാദന പ്രക്രിയകൾ സ്വയംഭരണാധികാരത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യും ഈ എല്ലാ കാര്യങ്ങളിലും പ്രവേശിക്കുന്നതിനുമുമ്പ് നമുക്ക് ആദ്യം ഈ സ്മാർട്ട് ഫാക്ടറി ആശയം കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരു സ്മാർട്ട് ഫാക്ടറി ശരിയായി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് പറയാം അതിന്റെ വ്യത്യസ്ത ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് സ്മാർട്ട് മെഷിനറികൾ എന്നിവ ആവശ്യമാണ് ഇവ സ്മാർട്ട് ഉൽപ്പന്നത്തിലേക്ക് എത്താൻ സഹായിക്കും ഇവയെല്ലാം മികച്ചതാക്കാൻ നമ്മൾ സ്മാർട്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഇതൊരു സ്മാർട്ട് ഫാക്ടറിയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ടാകാം ഇത് ഉൽപ്പന്നത്തെ മികച്ചതാക്കാൻ സഹായിക്കും അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ ഇടപെടലിനെക്കുറിച്ചാണ് ഇതാണ് സ്മാർട്ട് ഫാക്ടറി ഉപഭോക്തൃ പെരുമാറ്റം ഉപഭോക്താവുമായുള്ള ഇടപെടൽ ഫാക്ടറിയിലെ ഉപഭോക്താക്കളുടെ പെരുമാറ്റം സിസ്റ്റത്തിലെ വ്യത്യസ്ത ഇടപെടലുകൾ എന്നിവ ഊർജ്ജ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ സ്മാർട്ട് ഗ്രിഡ് മറ്റ് വ്യത്യസ്ത വശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനാൽ എന്തുകൊണ്ടാണ് നമുക്ക് സ്മാർട്ട് ഫാക്ടറികൾ വേണ്ടത് നമ്മുടെ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുന്നതിനായി വിപണി ഇന്ന് വളരെ മത്സരാധിഷ്ഠിതമാണ് നിങ്ങൾക്ക് സമർത്ഥമായ യന്ത്രങ്ങൾ മികച്ച പ്രക്രിയകൾ മൊത്തത്തിലുള്ള മികച്ച സംവിധാനങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ ഈ സംവിധാനങ്ങളുടെ ഉപയോഗത്തിലൂടെ നിങ്ങൾക്ക് ഉൽപാദനക്ഷമത കാര്യക്ഷമത ഈ യന്ത്രങ്ങളുടെ മെച്ചപ്പെട്ട നിരീക്ഷണം ഡൌൺ സമയം നമുക്ക് സ്മാർട്ട് ഫാക്ടറികളും ഉയർന്ന അളവിലുള്ള ഉൽപാദനവും ഉണ്ടായിരിക്കണം ഇത് തികച്ചും സ്വയം മനസ്സിലാക്കാവുന്നതേയുള്ളൂ അവസാനത്തേത് വളരെ പ്രധാനമാണ് പരാജയത്തിന്റെ അപകടസാധ്യത കുറയ്ക്കുക അത് ഉൽപാദനക്ഷമതയെ ബാധിക്കും സ്മാർട്ട് ഫാക്ടറികളുടെ ഉപയോഗത്തിലൂടെ പരാജയ സാധ്യത കുറയ്ക്കാൻ കഴിയും സ്മാർട്ട് ഫാക്ടറികൾ നടത്തുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് മൊത്തം ചെലവ് ഉൽപാദനച്ചെലവ് കുറയ്ക്കുക ഉൽപാദനക്ഷമതയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ ഉൽപന്നത്തിന്റെ കാര്യക്ഷമത നിർമ്മിക്കുന്നത് ഉപരിതലങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ ഉൽപാദന പ്രക്രിയകളുടെ കാര്യക്ഷമത എന്നിവ മെച്ചപ്പെടുത്താനും കഴിയും അതിനാൽ സ്മാർട്ട് ഫാക്ടറികളിലേക്ക് സംയോജിപ്പിക്കുകയോ പരിവർത്തനം ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ എല്ലാ വ്യത്യസ്ത പദങ്ങളിലും മൊത്തത്തിലുള്ള കാര്യക്ഷമത കൈവരിക്കാൻ കഴിയും യന്ത്രത്തിന്റെ ആരോഗ്യം പോലുള്ള വിവിധ കാര്യങ്ങളുടെ പ്രവചനാത്മകത മെച്ചപ്പെടുത്തുക ഗുണനിലവാരം മെച്ചപ്പെടുത്തുക ഭാവിയിൽ യന്ത്രത്തിന്റെ ആരോഗ്യം പ്രവചിക്കുക ഭാവിയിൽ ഒരു തകരാർ സംഭവിക്കുമോ എന്ന് പ്രവചിക്കുക യന്ത്രങ്ങളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുക ഫാക്ടറികളിലെ തൊഴിലാളികളുടെ മൊത്തത്തിലുള്ള സുരക്ഷ ഇവയാണ് സ്മാർട്ട് ഫാക്ടറി സ്മാർട്ട് മെഷീനുകൾ സ്മാർട്ട് എഞ്ചിനീയറിംഗ് സ്മാർട്ട് ഡിവൈസുകൾ സ്മാർട്ട് നിർമ്മാണ പ്രക്രിയ അവ മികച്ചതാക്കാൻ വിശകലനം ചെയ്യേണ്ട ധാരാളം ഡാറ്റ അവർ നൽകും മറ്റ് യന്ത്രങ്ങളുമായി ആശയവിനിമയം നടത്താനും മറ്റ് സ്മാർട്ട് ഉപകരണങ്ങളുമായി ആശയവിനിമയം നടത്താനും മനുഷ്യരുമായി സ്മാർട്ട് മെഷീനുകൾ സഹായിക്കുന്നു സ്മാർട്ട് ഉപകരണങ്ങൾ ബന്ധിപ്പിക്കും അവ മറ്റ് ഫീൽഡ് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്ന മറ്റ് മൊബൈൽ ഉപകരണങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കും സ്മാർട്ട് ഉപകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കണക്റ്റിവിറ്റി പ്രശ്നം വളരെ പ്രധാനമാണ് സ്മാർട്ട് നിർമ്മാണ പ്രക്രിയ നിർമ്മാണത്തിലെ ചലനാത്മകതയെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ആവശ്യകതകളിൽ ചലനാത്മകമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നു മനുഷ്യന്റെ ഇടപെടലില്ലാതെ സ്വയംഭരണാധികാരത്തോടെ നിർമ്മാണം നടത്താൻ പോകുന്നു റിയൽ ടൈംലിനെസ്സ് വളരെ പ്രധാനമാണ് കാര്യക്ഷമത വളരെ പ്രധാനമാണ് ഇവയെല്ലാം സ്മാർട്ട് നിർമ്മാണ പ്രക്രിയകൾ നടത്താൻ സഹായിക്കുന്നു സ്മാർട്ട് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നത്തിന്റെ സ്മാർട്ട് വികസനം സ്മാർട്ട് ആസൂത്രണം ഇവയെല്ലാം സ്മാർട്ട് എഞ്ചിനീയറിംഗിന്റെ വ്യത്യസ്ത ഘടകങ്ങളാണ് സ്മാർട്ട് ഫാക്ടറികളുടെ മൊത്തത്തിലുള്ള ബിസിനസിൽ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ ഇത് വളരെ പ്രധാനമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നാണ് സ്മാർട്ട് സോഫ്റ്റ്വെയർ സ്മാർട്ട് ഹാർഡ്വെയർ സ്മാർട്ട് മാനേജ്മെന്റ് സ്മാർട്ട് മോണിറ്ററിംഗ് സ്മാർട്ട് കൺട്രോൾ പരിഹാരങ്ങൾ ആവശ്യമാണ് സ്മാർട്ട് ഫാക്ടറികളുടെ ചില പ്രത്യേകതകൾ ഇവയാണ് മൊത്തത്തിൽ നമ്മൾ സ്മാർട്ട് ഫാക്ടറികളെക്കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്ത യന്ത്രങ്ങൾ തമ്മിലുള്ള കണക്റ്റിവിറ്റി മെഷീനുകളും വ്യത്യസ്ത ഓപ്പറേറ്റർമാരും തമ്മിലുള്ള കണക്റ്റിവിറ്റി ഈ വ്യത്യസ്ത ഓപ്പറേറ്റർമാർ തമ്മിലുള്ള കണക്റ്റിവിറ്റി എന്നിവയുണ്ട് അങ്ങനെ നമുക്ക് യന്ത്രം മുതൽ യന്ത്രം യന്ത്രം മനുഷ്യൻ തുടർന്ന് മനുഷ്യൻ മുതൽ മനുഷ്യൻ വരെ ഈ വ്യത്യസ്ത കണക്റ്റിവിറ്റിയെല്ലാം സ്മാർട്ട് ഫാക്ടറിയുടെ വളരെ പ്രധാനപ്പെട്ട സ്വഭാവമാണ് ഒപ്റ്റിമൈസേഷൻ എന്നാൽ ഈ സ്മാർട്ട് ഫാക്ടറികൾ അവയുടെ പരിഹാരങ്ങൾ ഉൽപാദനക്ഷമത പ്രക്രിയകൾ ഓവർടൈം എന്നിവ ഒപ്റ്റിമൈസ് ചെയ്യും വ്യത്യസ്ത അൽഗോരിതങ്ങളിലൂടെ അവയിൽ നടപ്പിലാക്കുന്ന ചിലതരം സ്വയം പഠന സ്വഭാവം അവർ ഉൾക്കൊള്ളും സുതാര്യത വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനക്ഷമതയും ചടുലതയും വളരെ വേഗത്തിൽ നീങ്ങുന്നു അതിനാൽ ചലനാത്മകത ആവശ്യകതകളിലെ മാറ്റങ്ങൾ പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ പാരിസ്ഥിതിക പാരാമീറ്ററുകളിലെ മാറ്റങ്ങൾ എന്നിവയിൽ വളരെ വേഗത്തിൽ നീങ്ങുന്നു കണക്ഷൻ കണക്റ്റുചെയ്ത സ്മാർട്ട് ഉപകരണങ്ങൾ കണക്റ്റുചെയ്ത സ്മാർട്ട് മെഷീനുകൾ ഈ കണക്റ്റുചെയ്ത എല്ലാ ഉപകരണങ്ങളും ധാരാളം ഡാറ്റ കൊണ്ടുവരും ഡാറ്റാ സെന്ററുമായുള്ള കണക്റ്റിവിറ്റിയും വ്യത്യസ്ത പ്രക്രിയകൾ തമ്മിലുള്ള കണക്റ്റിവിറ്റിയും പ്രധാനമാണ് ചുമതലകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ടാസ്കുകളുടെ ഷെഡ്യൂൾ ഊർജ്ജ ഉപയോഗം ഒപ്റ്റിമൈസ് ചെയ്യുക ഉൽപാദനച്ചെലവ് ഒപ്റ്റിമൈസ് ചെയ്യുക ട്രാക്കിംഗ് ഒപ്റ്റിമൈസ് ചെയ്യുക വിശ്വാസ്യത വർദ്ധിപ്പിക്കുക മറ്റ് പലതും സ്മാർട്ട് ഫാക്ടറിയിൽ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ട് സുതാര്യത കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഘടകം ഒരു പ്രത്യേക യന്ത്രസാമഗ്രികൾ ചില ലോജിസ്റ്റിക് ഇനങ്ങൾ ട്രാക്കുചെയ്യാനാകും അവ തത്സമയം ചെയ്യുന്നു ഇത് സുതാര്യതയിലും മെച്ചപ്പെടുന്നു തത്സമയം ആവശ്യമുള്ളപ്പോഴെല്ലാം ഒരു പ്രത്യേക സ്ഥലത്തുള്ള ഒരു സ്മാർട്ട് ഫാക്ടറിയിൽ ട്രാക്കിംഗ് വളരെ കാര്യക്ഷമമായിത്തീരുന്നു ഇത് സുതാര്യത മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു തത്സമയ നിരീക്ഷണവും ആവശ്യമായ നടപടികൾ കൃത്യസമയത്ത് എടുക്കുന്നതും എന്തെങ്കിലും തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തത്സമയം കഴിയുന്നത്ര വേഗത്തിൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ് തുടർന്ന് ഈ വിവരം ലഭിക്കേണ്ട ആളുകൾക്ക് അലേർട്ട് സന്ദേശങ്ങൾ സൃഷ്ടിക്കുക പ്രോആക്ടിവിറ്റി ഗുണമേന്മയുള്ള പ്രശ്നങ്ങൾ പ്രവചിക്കുക സുരക്ഷ മെച്ചപ്പെടുത്തുക ഭാവി ഫലങ്ങൾ പ്രവചിക്കുക ഭാവിയിലെ വെല്ലുവിളികൾ പ്രവചിക്കുക എന്നതാണ് എജിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ മൊത്തത്തിലുള്ള വഴക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നു വ്യത്യസ്ത മാറ്റങ്ങൾ ആവശ്യകതകളിലെ മാറ്റങ്ങൾ ഒരുപക്ഷേ വ്യത്യസ്ത ഉൽപാദന പ്രക്രിയകളിലെ മാറ്റങ്ങൾ നിയമപരമായ അനുരൂപീകരണത്തിലെ മാറ്റങ്ങൾ കാലക്രമേണ മാറുന്ന നിരവധി കാര്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതിനുള്ള വഴക്കം വഴക്കത്തോടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എജിലിറ്റിക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ഉൽപാദന പ്രക്രിയകളിലെ മാറ്റങ്ങൾ നിയമപരമായ ആവശ്യകതകളിലെ മാറ്റങ്ങൾ മൊത്തത്തിലുള്ള ആവശ്യകതകളിലെ മാറ്റങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്നു അതിനാൽ ഈ കാര്യങ്ങളെല്ലാം അഡാപ്റ്റേഷനാണ് ഇത് ചടുലമായ ആട്രിബ്യൂട്ടിന്റെ സ്വയം ക്രമീകരിക്കാൻ കഴിയണം ആവശ്യമുള്ളപ്പോഴെല്ലാം അവർക്ക് സ്വന്തമായി ആരംഭിക്കാനും സ്വന്തമായി പ്രവർത്തിക്കാനും സ്വന്തമായി ക്രമീകരിക്കാനും കഴിയും സ്മാർട്ട് ഫാക്ടറികൾക്കുള്ള പിന്തുണയ്ക്കുന്ന സാങ്കേതികവിദ്യകൾ ബിഗ് ഡാറ്റ സാങ്കേതികവിദ്യ വളരെ പ്രധാനമാണ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് വലിയ അളവിൽ ഉയർന്ന വേഗതയിൽ ഉയർന്ന വൈവിധ്യമുള്ള വ്യത്യസ്ത Vs അടിസ്ഥാനത്തിൽ പ്രതിനിധീകരിക്കുന്ന നിരവധി ആട്രിബ്യൂട്ടുകൾ എന്നിവയെക്കുറിച്ചുള്ളതാണ് ഈ ഡാറ്റ കൈകാര്യം ചെയ്യേണ്ടതും സ്മാർട്ട് ഫാക്ടറികൾ ധാരാളം ഉൽപാദിപ്പിക്കുകയും ചെയ്യും അവർ ധാരാളം ഡാറ്റയുടെ നിർമ്മാതാക്കളാണ് ഈ ഡാറ്റ സംഭരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും നിശ്ചിത രീതിയിൽ വിശകലനം ചെയ്യുകയും ചെയ്യുന്നതുവരെ ഉപയോഗശൂന്യമായിരിക്കും ഈ വലിയ ഡാറ്റ സാങ്കേതികവിദ്യകൾക്കായി ഹഡൂപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു പിന്തുണയ്ക്കുന്ന സാങ്കേതികവിദ്യയാണ് കാരണം നമ്മൾ ഫാക്ടറികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഫാക്ടറികൾ പ്രധാനമായും ഏറ്റവും വലിയ ഉപഭോക്താക്കളാണ് വൈദ്യുതിയുടെയും മറ്റ് ഊർജ്ജത്തിന്റെയും ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒരാൾ അതിനാൽ ഊർജ്ജം കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുന്നത് വളരെ പ്രധാനമാണ് സ്മാർട്ട് ഫാക്ടറികളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സ്മാർട്ട് ഗ്രിഡുകൾ വളരെ പ്രധാനമാണ് സ്മാർട്ട് ഫാക്ടറിയിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ ഉപയോഗം പ്രോസസ്സിംഗ് കഴിവുകൾ ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള കമ്പ്യൂട്ടിംഗ് വിവിധ ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകൽ വിവിധ വികസന പ്ലാറ്റ്ഫോമുകൾ ഡാറ്റ സംഭരണം എന്നിവയിൽ സഹായിക്കുന്നു സ്മാർട്ട് ഫാക്ടറീസ് ഡൊമെയ്നിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് നൽകുന്നതാണ് കൂടുതൽ അളക്കാവുന്ന രീതിയിൽ ബിഗ് ഡാറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് സ്മാർട്ട് ഫാക്ടറികളിൽ സ്മാർട്ട് ഗ്രിഡിന്റെ ഉപയോഗം ഊർജ്ജ ഉപഭോഗത്തിൽ സ്ഥിരത നിങ്ങൾ സ്മാർട്ട് ഫാക്ടറികളുള്ള സ്മാർട്ട് ഗ്രിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഊർജ്ജ ഉപഭോഗം മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടും കൃത്യമായ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ഒപ്റ്റിമൈസ് ചെയ്ത ഊർജ്ജ ഉപഭോഗം ഉണ്ടാകും ഊർജ്ജ ഉപഭോഗം പോലും ദിവസം മുഴുവൻ അല്ലെങ്കിൽ വർഷത്തിലെ വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത പ്രക്രിയകളിലൂടെ സന്തുലിതമാക്കാം ലോഡ് ബാലൻസിംഗ് കമ്പനിയുടെ വിവിധ ഭാഗങ്ങളിലുടനീളം ദിവസം മുഴുവൻ ലോഡ് ബാലൻസ് ചെയ്യുന്നു സ്മാർട്ട് ഗ്രിഡിന്റെ പ്രധാന വശങ്ങൾ ഇവയാണ് ഇതാണ് ഏറ്റവും താഴെയുള്ള ഒരു സ്മാർട്ട് ഫാക്ടറിയുടെ ഓട്ടോമേഷൻ പിരമിഡ് ഇതിനിടയിൽ ആശയവിനിമയ പാളികൾ ഇവയെല്ലാം വ്യത്യസ്തമാണ് സ്മാർട്ട് ഫാക്ടറികളിൽ ഓഗ്മെൻറ്റെഡ് റിയാലിറ്റി ഉപയോഗം വളരെ വ്യാപകമാണ് ഇത് വിദൂരമായി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കും ഓഗ്മെൻറ്റെഡ് റിയാലിറ്റി സഹായത്തോടെ ഫാക്ടറിയിലെ വ്യത്യസ്ത യന്ത്രങ്ങൾ വ്യത്യസ്ത ഉപകരണങ്ങൾ എന്നിവയുടെ വിദൂര നിരീക്ഷണം സാധ്യമാണ് വാസ്തവത്തിൽ വെർച്വൽ റിയാലിറ്റിയായ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും മറ്റ് സുരക്ഷാ നിർണായക മേഖലകൾക്കും സഹായിക്കും സ്മാർട്ട് ഫാക്ടറിയെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന്റെ അവസാനത്തോടെ സ്മാർട്ട് ഫാക്ടറി എന്താണെന്നും എന്തുകൊണ്ട് സ്മാർട്ട് ഫാക്ടറികൾ ആവശ്യമാണെന്നും സ്മാർട്ട് ഫാക്ടറിയുടെ അവശ്യ ഘടകങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് കുറച്ച് അടിസ്ഥാന ധാരണ ലഭിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കായി നൽകിയിട്ടുള്ള ചില റഫറൻസ് ആണ് ഇവ നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നുപോകാൻ കഴിയും ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫാക്ടറികളിൽ മറ്റ് നിരവധി പ്രഭാഷണങ്ങളും മറ്റ് മെറ്റീരിയലുകളും കണ്ടെത്താൻ കഴിയും സ്മാർട്ട് ഫാക്ടറികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവയിലൂടെ കടന്നുപോകാൻ മടിക്കേണ്ടതില്ല എന്നാൽ സ്മാർട്ട് ഫാക്ടറി ഒരു ആശയമാണ് വ്യത്യസ്ത കെട്ടിട സാങ്കേതികവിദ്യകളും വ്യത്യസ്ത ഘടകങ്ങളും ഉണ്ട് ഈ വ്യത്യസ്ത സാങ്കേതികവിദ്യകളെല്ലാം സ്മാർട്ട് ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യകൾ പ്രാപ്തമാക്കുന്നു ഈ പ്രത്യേക കോഴ്സിന്റെ വ്യത്യസ്ത പ്രഭാഷണങ്ങളിലൂടെ ഒരു കാഴ്ച നേടാൻ ശ്രമിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു സ്മാർട്ട് ഫാക്ടറി നിർമ്മിക്കണമെങ്കിൽ ഈ കോഴ്സിൽ കടന്നുപോകുന്ന ഈ ആശയങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് അവസാനിക്കുന്നു ഇൻഡസ്ട്രി 4 0 ന്റെ പശ്ചാത്തലത്തിൽ സ്മാർട്ട് ഫാക്ടറി വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇൻഡസ്ട്രി 4 0 ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് ഇൻഡസ്ട്രി 4 0 ലെ കേന്ദ്ര തീം സ്മാർട്ട് ഫാക്ടറികൾ നിർമ്മിക്കുക എന്നതാണ് ഇതോടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു